നമസ്കാരം നമ്മൾ ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് ഇനി രണ്ട് ഉദാഹരണങ്ങൾ കാണിക്കാം ഒന്ന് വെബ് ആപ്പിനെ ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്യുന്നതും മറ്റേത് ഗൂഗിൾ പ്ലാറ്റ്ഫോമിലെ വെബ് ആപ്പിൽ ഒരു ആപ്പ് ഉണ്ടാക്കുന്നതും എൻറെ കൂടെ ശ്രേയ ആണുള്ളത് ശ്രേയ അത് നിങ്ങൾക്ക് കാണിച്ചു തരും അതിലൂടെ നിങ്ങൾക്ക് ഇതേ കാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായി തോന്നും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും ഞാനിനി ശ്രേയക്ക് കൈമാറുകയാണ് അവർ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരും നന്ദി സർ നമ്മൾക്ക് ആദ്യം ഗൂഗിൾ പ്ലാറ്റഫോം കൺസോളിൽ കേറാം നമ്മൾക്ക് അപ്പോൾ ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യണം അതിലൂടെ നമ്മൾക്ക് വെബ് പേജ് ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ കൺസോളിലോട്ട് പോവുകയാണ് അവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു ജി സി പി അക്കൌണ്ടിലോട്ട് നമ്മൾ നേരത്തെ ഏതെങ്കിലും പ്രോജക്ടുകൾ ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ഇവിടെ പ്രോജക്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാണിക്കും അതുപോലെതന്നെ മറ്റ് സ്രോതസ്സുകളുടെ വിവരങ്ങളും ഇവിടെ വരും ഉദാഹരണത്തിന് ആപ്പ് എൻജിൻറെ വിവരങ്ങളും കമ്പ്യൂട്ടിംഗ് എൻജിൻറെ വിവരങ്ങളും വരും സ്റ്റാറ്റിക് ആയിട്ടുള്ള പേജിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഗൂഗിൾ സ്റ്റോറേജ് ബക്കറ്റ് കോൺഫിഗർ ചെയ്യേണ്ടിവരും അതുകൊണ്ട് നമ്മൾ സ്റ്റോറേജ് ഓപ്ഷനിലോട്ട് വരണം അപ്പോൾ ആദ്യം നമ്മൾ കൺസോളിൽ ലോഗിൻ ചെയ്യണം എന്നിട്ട് സ്റ്റോറേജ് ബക്കറ്റിനെ ഉണ്ടാക്കണം ഇതാ ഈ സ്റ്റോറേജ് ബക്കറ്റിൻറെ അടിയിൽ ബ്രൌസർ ടാബ് ഉണ്ട് ഇവിടെ നമ്മൾക്ക് കുറച്ച് ഓപ്ഷനുകൾ കാണാം അതിലെ ഒന്ന് ക്രിയേറ്റ് ബക്കറ്റ് ഇവിടെ ഞാൻ ഒരു പുതിയ ബക്കറ്റ് ഉണ്ടാക്കുകയാണ് അതിന് ഞാൻ NPTEL എന്ന പേര് കൊടുക്കുന്നു NPTEL അല്ലെങ്കിൽ വെബ്പേജ് ജി സി പി വെബ്പേജ് ഇനി നമ്മൾ സ്റ്റോറേജ് ക്ലാസ്സ് തിരഞ്ഞെടുക്കുകയാണ് ഇവിടെയാണ് ഈ വെബ്ബ് ആപ്പ് ഇരിക്കാൻ പോകുന്നത് ഇതിൻറെ റീജിയണൽ തിരഞ്ഞെടുക്കണം ഏഷ്യ ഈസ്റ്റ്1 എന്നു കൊടുക്കുന്നു അങ്ങനെ ഈ ബക്കറ്റ് ഉണ്ടാക്കുകയാണ് പക്ഷേ ഇവിടെ ഒബ്ജക്റ്റ്കൾ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾക്ക് ഫയലുകളോ അല്ലെങ്കിൽ ഉള്ളടക്കങ്ങളോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലോക്കൽ ആയിട്ട് ഫയലുകൾ ഉണ്ട് അതിനെ ഗൂഗിൾലോട്ട് ഹോസ്റ്റ് ചെയ്യുകയാണ് സ്വതന്ത്രമായ ഫയലുകളെ നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഫോൾഡറിനെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒരു ലോക്കൽ സൈറ്റ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ഇതിനെ നിങ്ങൾ ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മൾക്ക് ഒരു വെബ്പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ഫയലുകൾ വേണം ഒന്ന് 404 4 0 4 ഫയൽ കണ്ടില്ല എന്ന് അല്ല അടുത്തത് ഹോം പേജിലെ മെയിൻ എച്ച് ടി എം എൽ ഫയൽ ആണ് ഇൻഡക്സ് ഡോട്ട് എച്ച്ടിഎംഎൽ ഇൻഡക്സ് ഡോട്ട് എച്ച് ടി എം എൽ അപ്പോൾ ഈ ഫയലുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഫയലുകളെയെല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത് പബ്ലിക് ആയിട്ട് ആണോ അല്ലയോ എന്നതാണ് ഇവിടെയുള്ള എല്ലാ ലിങ്കുകളേയും നമ്മൾ പരിശോധിച്ചു നോക്കണം ഈ ഫയലുകൾ മാത്രമല്ല ഈ ഫോൾഡറികത്തുള്ള ഫയലുകളെയും നമ്മൾ പരിശോധിച്ചു നോക്കണം എല്ലാ ഫയലുകളും ഇപ്പോൾ പരിശോധിച്ചു നോക്കി നമ്മൾ വെബ് കണ്ടെന്റുകളെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ വെബ് സൈറ്റ് ഹോം പേജിലേക്ക് പോകാം ഇവിടെ പബ്ലിക് ലിങ്കിൽ അമർത്തണം ഇവിടുത്തെ യുആർഎൽ ഇൽ നിന്ന് നമ്മൾക്ക് പ്രൊജക്റ്റ് പേരോ അല്ലെങ്കിൽ ബക്കറ്റ് പേരോ കാണാൻ സാധിക്കും ഇതാണ് ഹോം പേജ് എച്ച്ടിഎംഎൽ ഫയൽ ഈയൊരു ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് ഡോട്ട് ഗൂഗിൾഎപിഐസ് ഡോട്ട് കോമിൽ നിന്നാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് ഏതൊരു വെബ് പേജിലോട്ടും പോവാം ഉദാഹരണത്തിന് cc1 HTML എന്നിവ അതുപോലെതന്നെ എക്സ്റ്റേണൽ വെബ്പേജിലോട്ട് വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കൊടുക്കാം ഇതാണ് ഹോസ്റ്റ് ചെയ്യുന്ന ഭാഗം ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു നേർവഴിക്ക് ആണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ലോഗിൻ ചെയ്തതിനു ശേഷം ഫയൽ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇവിടെ അവരെ ഹോസ്റ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ സ്റ്റോറേജ് സർവീസ് ആണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഫയലുകൾ എടുക്കാനുള്ള അനുവാദം പബ്ലിക് ആക്കണം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഉദാഹരണം ഒരു ഗൂഗിൾ ആപ്പ് എൻജിനകത്ത് ഒരു ആപ്പ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ ആപ്പ് എൻജിൻ സർവീസ് ആണല്ലേ ഉപയോഗിക്കുന്നത് ഈ ആപ്പ് എന്താണ് ചെയ്യുന്നത് ഈ ഒരു ആപ്പ് സന്ദേശങ്ങൾ വെബ് പേജിൽ എഴുതും ശരി ഒരു പൈത്തൺ ആപ്പ് ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ഒരു പുതിയ പ്രോജക്ട് ഈ ഗൂഗിൾ ക്ലൌഡ് പെർഫോം ഡാഷ്ബോർഡിൽ ഉണ്ടാകണം ഇതാ ഇവിടെ ഒരു പുതിയ പ്രോജക്ട് ഉണ്ടാക്കുകയാണ് പൈത്തൺ ആപ്പ് ദാ ഇവിടെ നമ്മൾക്ക് ഗ്ലോബലി യൂണിക് ഐഡന്റിഫയറിനെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ പ്രൊജക്റ്റ് ആയി കഴിഞ്ഞു ഈ പ്രോജക്ടിലേക്ക് കയറുകയാണ് പ്രോജക്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗൂഗിൾ ക്ലൌഡ് ഷെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു ഇത് ലിനക്സ് മെഷിന്റെ ടെർമിനലിനെ പോലെ ഇവിടെ പ്രവർത്തിക്കുന്നു കമാൻഡ് പ്രോംപ്റ്റ് വന്നു നമ്മൾക്ക് ഏത് നിർദ്ദേശവും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാം എക്സിക്യൂട്ട് ചെയ്യുകയാണോ അതെ ഇനി ഞാനൊരു ആപ്ലിക്കേഷൻ ഉദാഹരണത്തിനെ ക്ലോൺ ചെയ്യുകയോ ഡൌൺലോഡ് ചെയ്യുകയോ ചെയ്യുകയാണ് ഗിറ്റ് ഹബ് റെപോസിറ്ററിയിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ എഴുതിയിരിക്കുന്നത് കാണാം നമുക്ക് അപ്പോൾ ഇവിടെ വിവരങ്ങളെ ഡൌൺലോഡ് ചെയ്യാനും എടുക്കാനും സാധിക്കും അതിൻറെ കൂടെ നമ്മുടെ സ്വന്തമായിട്ടുള്ളത് ഉണ്ടാക്കാനും സാധിക്കും നമ്മൾ ഇനി ഗൂഗിൾ ക്ലൌഡ് ഷെൽ മെഷീനിൽ ആപ്ലിക്കേഷനുകളെ നോക്കുകയാണ് ഇവിടെ ക്ലോൺ ചെയ്തുകഴിഞ്ഞു അതിൻറെ അർത്ഥം റപ്പോസിറ്ററിയിൽ ഉണ്ടായിരുന്ന എല്ലാ കണ്ടന്റുകളെയും നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്ലൌഡ് ഷെൽ മെഷീനിലോട്ട് ഡൌൺലോഡ് ചെയ്തു കഴിഞ്ഞു എന്നാണ് ഞാൻ ഡയറക്ടറിയിലോട്ട് പോവുകയാണ് അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഫയലുകൾ ഉണ്ട് ഒന്ന് അപിയർ മെയിൽ അത് ആപ്ലിക്കേഷന്റെ കോൺഫിഗറേഷൻ ഫയൽ ആണ് അടുത്തത് മെയിൻ പൈത്തൺ ഫയൽ നമ്മൾ ഈ ഫയലുകൾ തുറക്കുകയാണ് ഇതാണ് മെയിൻ കോൺഫിഗറേഷൻ ഫയൽ അത് ഈ ആപ്ലിക്കേഷന്റെ റൺ ടൈം വേണ്ടിവരുന്നത് പൈത്തൺ 2 7 എൻവിയോൺമെൻറ് ആണ് എന്ന് പറഞ്ഞുതരുന്നു ഇത് ഒരു ത്രെഡ് സേഫ് ആപ്ലിക്കേഷനാണ് അതിൻറെ അർത്ഥം ഒരു പ്രത്യേക ആപ്ലിക്കേഷന് ഒരുപാട് അപേക്ഷകൾ ഏതൊരു യു ആർ എല്ലിൽ നിന്നും വരുന്നതിനെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാണ് അതുപോലെതന്നെ റെഗുലർ എക്സ്പ്രഷനുമായി ചേർച്ചയുള്ള ഏത് യുആർഎൽനെയും മെയിൻ ആപ്പ് ഫയലിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും പിന്നെ മെയിൻ ഡോട്ട് പൈ ഫയൽ എന്നതിനെ ഫ്ലക്സ് വെബ് ഡെവലപ്മെൻറ് ഫ്രെയിമിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സ് ഫയലിൽ നമുക്ക് സാധാ നിർദ്ദേശങ്ങൾ ആയ ഹലോ വേൾഡിനെ കാണാൻ സാധിക്കും ഇതിന് നമ്മൾക്ക് മാറ്റം വരുത്താനും സാധിക്കും അതിൽ മാറ്റം വരുത്താൻ സാധിക്കും ഞാനിനി ഡെവലപ്മെൻറ് സർവർ തുടങ്ങുകയാണ് ഈ ഡെവലപ്മെൻറ് സർവർ നമ്മൾ തുടങ്ങുന്നത് ഒരു പ്രത്യേക ലിങ്കിൽ നിന്നാണ് നമ്മൾ ഇനി വെബ് പ്രിവ്യൂവിലോട്ട് web preview പോവുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഹലോ വേൾഡ് എന്ന സന്ദേശം അവിടെ പ്രിൻറ് ചെയ്തിരുന്നതായി കാണാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെവലപ്മെൻറ് സർവർ ഷട്ട്ഡൌൺ ചെയ്യാനും പറ്റും അപ്പോൾ ഇവിടെ നമ്മൾക്ക് കണക്ഷൻ എറർ കാണാം കാരണം ക്ലൌഡ് ഷെൽ സെർവറിനെ ഷട്ട് ഡൌൺ ചെയ്തു ഇനി ഞാൻ ആപ്ലിക്കേഷൻ മാറ്റുകയാണ് നമ്മൾക്ക് വീണ്ടും ഇവിടെ ഡെവലപ്മെൻറ് സെർവർ തുടങ്ങണം ഇവിടെ ഞാൻ പരിശോധിച്ചു നോക്കുകയാണ് ഇവിടെ നമ്മൾ സന്ദേശത്തെ മാറ്റുകയാണ് ഇത്രയും നേരം നമ്മൾ ഡെവലപ്പ് ചെയ്തു കൊണ്ടിരുന്നത് ഒരു ലോക്കൽ ഡെവലപ്മെൻറ് സർവറിലാണ് പക്ഷേ ഫയലുകളെ ഒന്നും നമ്മൾ ഇതുവരെ ഗൂഗിൾ ആപ്പ് എൻജിനിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഡിപ്ലോയിമെന്റും മോഡിഫിക്കേഷനും കഴിഞ്ഞാൽ ഉടനെ ഇതിനെ ഡിപ്ലോയി ചെയ്യും ഗൂഗിൾ ആപ്പ് എൻജിനിലോട്ട് നമുക്ക് ഡിപ്ലോയി ചെയ്യണം ഇവിടെ നമ്മൾ ഈ നിർദ്ദേശം കൊടുക്കുകയാണ് ജി ക്ലൌഡ് ആപ്പ് ഡിപ്പോയി അതിനുശേഷം അത് നമ്മളുടെ അടുത്ത് എവിടെയാണ് ഈ ആപ്പ് എൻജിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കും ഞാനിവിടെ 7 കൊടുക്കുന്നു നമ്മൾ ഇവിടെ ഫയലുകളെല്ലാം ഗൂഗിൾ ക്ലൌഡ് സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഡിപ്ലോയിമെൻറ് ഇവിടെ പൂർത്തിയായി നമുക്ക് ഇനി നമ്മുടെ ആപ്ലിക്കേഷനെ കാണണമെങ്കിൽ ജി ക്ലൌഡ് ആപ്പ് ബ്രൌസ് ഉപയോഗിച്ചാൽ മതി അത് നമുക്ക് യുആർഎൽ തരും ഈ യുആർഎൽ എന്നത് നമ്മുടെ പ്രോജക്റ്റിന്റെ യൂണിക് ഐഡന്റിഫയർ ആണ് ഒരു പ്രത്യേക ആപ്ലിക്കേഷനെ നമ്മൾ ഗൂഗിൾ ആപ്പ് എൻജിനിൽ ലോഞ്ച് ചെയ്തു അതിനുശേഷം നമ്മൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ആകാം ഈ പ്രോജക്ട് ഡിപ്ലോയി ആയതിനുശേഷം നമുക്ക് ഈ പ്രോജക്ടിനെ ഷട്ട് ഡൌൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഷട്ട്ഡൌൺ എന്നാൽ ഇത് അടിസ്ഥാനപരമായി അടക്കുകയാണ് നമ്മൾക്ക് ഇതേ പ്രൊജക്റ്റ് പിന്നീട് തുറക്കാൻ സാധിക്കുമോ അതെ ഇത് അടിസ്ഥാനപരമായി ഒന്നു വൃത്തിയാക്കുകയാണ് ശ്രേയ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഉദാഹരണം കാണിച്ചുതന്നു ഉദാഹരണത്തിനെക്കാളും പ്രാധാന്യം അതിൻറെ നടപടിക്രമമാണ് നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ലളിതമായുള്ളതിൽ നിന്നും സങ്കീർണമായുള്ളവയിലേക്ക് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉദാഹരണം ലോക്കലായി ഡെവലപ്പ് ചെയ്ത വെബ് ആപ്പിനെ ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്തത് ശ്രേയ ചെയ്തത് ഒരു ഗൂഗിൾ വെബ് ആപ്പിനെ ഗൂഗിൾ ആപ്പ് എൻജിൻ വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആപ്പിനെ ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷനുകളും ഇവിടെ ഉണ്ടാക്കാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് സർവീസുകൾ ഗൂഗിൾ തരുന്നതായി കാണാം അതുവെച്ച് പല തരത്തിലുള്ള ആപ്പുകളും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇവയെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നിങ്ങൾക്ക് ഇവ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതുമാണ് എങ്ങനെയാണ് ക്ലൌഡ് പ്രവർത്തിക്കുന്നത് എന്നും എന്തൊക്കെയാണ് അതിലെ ഓപ്പറേഷൻ ആശയങ്ങൾ എന്നും ഒരു ഉപഭോക്താവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചത്